നമസ്കാരം അവസാന ക്ലാസ്സിൽ സീരീസ് ആർഎൽസി സർക്യൂട്ടിനെക്കുറിച്ചും ഉറവിടം ലഭ്യമല്ലാത്തപ്പോൾ അതിന്റെ പ്രതികരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യുകയായിരുന്നു അതിനാൽ ഈ ആഴ്ചയിലും അവിടെ നിന്ന് യാത്ര തുടരും കൂടാതെ സ്റ്റെപ്പ് ഇൻപുട്ട് പ്രയോഗിക്കുമ്പോൾ എന്തു സംഭവിക്കുമെന്നും നോക്കാം അതിനാൽ അവസാന ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ആദ്യം മനസിലാക്കാം സോഴ്സ് ഫ്രീ സീരീസ് ആർഎൽസി സർക്യൂട്ടിനെക്കുറിച്ച് ചർച്ചചെയ്യുന്നു കൂടാതെ കിർചോഫിന്റെ വോൾട്ടേജ് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വഭാവ സമവാക്യത്തെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ രണ്ടാമത്തെ ഓർഡർ സ്വഭാവത്തിലാണ് അതിനാലാണ് ഇതിനെ രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഈ ചിത്രം കണ്ടാൽ ഊർജ്ജം തുടക്കത്തിൽ ഇൻഡക്റ്ററിലും കപ്പാസിറ്ററിലും സംഭരിക്കപ്പെടുന്നു അതിനാൽ കപ്പാസിറ്ററിന് തുടക്കത്തിൽ വോൾട്ടേജ് ചാർജ്ജ് ചെയ്യപ്പെടും കൂടാതെ ഇൻഡക്റ്ററിന് ആയി പ്രാരംഭ വൈദ്യുതധാരയുണ്ട് കാരണം ഈ രണ്ട് ഘടകങ്ങളും ഊർജ്ജം സംഭരിക്കുന്നതിനാലാണ് സർക്യൂട്ടിന് കുറച്ച് വൈദ്യുത പ്രവാഹം ഉള്ളത് ഇപ്പോൾ കെവിഎൽ ഉപയോഗിച്ചുള്ള സമവാക്യം നമുക്ക് ലഭിക്കും നമുക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ ഓർഡർ സമവാക്യമാണ് അത് ഇപ്പോൾ കറന്റ് ആണ് എന്ന് അനുമാനിച്ചു ഇപ്പോൾ നിങ്ങൾ മുകളിലുള്ള സമവാക്യത്തിൽ മൂല്യം ഇടുകയും അത് പരിഹരിക്കുകയും ചെയ്താൽ സമവാക്യത്തിന് 2 റൂട്ടുകൾ സാധ്യമാണെന്ന് കണ്ടെത്തി എന്നിവയും α R2L ഇത് ലളിതമാക്കുമ്പോൾ സ്ലൈഡുകളിൽ കാണിച്ചിരിക്കുന്നതുപോലെ എന്നിവ ലഭിച്ചു എന്നിവയുടെ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി സമവാക്യത്തിന് 3 തരം പരിഹാരങ്ങൾ ലഭ്യമാണെന്ന് കണ്ടെത്തി ആദ്യത്തേത് ɑ സിസ്റ്റം ഓവർഡാമ്പ് ആണെന്നും ɑ ഇത് ക്രിട്ടിക്കലി ഡാംപ് കേസാണെന്നും ɑ ആണെങ്കിൽ അണ്ടർഡാമ്പ് ചെയ്തതാണെന്നും ഇത് അർത്ഥമാക്കുന്നത് സിസ്റ്റം ഓവർഡാമ്പ് ചെയ്യുമ്പോൾ ɑലഭിച്ച അവസ്ഥ ആയിരുന്നു ഇപ്പോൾ ആ അവസ്ഥയെ അടിസ്ഥാനമാക്കി കണ്ടെത്തിയ മൂല്യം ആണ് സമയവുമായി ബന്ധപ്പെട്ട് കറന്റ് i യുടെ വ്യതിയാനമായ കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ കർവ് ഇതുപോലെയാകുമെന്ന് കണ്ടു അത് 0 മുതൽ ആരംഭിക്കുകയും ഒടുവിൽ അത് ഒരു ഘട്ടത്തിൽ സ്വതന്ത്രമാവുകയും ചെയ്യും കാരണം ഇത് ഒരു സ്രോതസ്സ് രഹിതമാവുകയും തുടർന്ന് സമയം ഇൻഫിനിറ്റിയിലാകുമ്പോൾ അത് 0 ലേക്ക് തിരികെ വരും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത രണ്ടാമത്തെ കേസ് ɑ എന്നാണ് ഇവിടെ അവസ്ഥ ആണ് ആ സാഹചര്യത്തിൽ സമയം ടി ആകുമ്പോൾ കറന്റ് i എന്നത് ന് തുല്യമാണെന്ന് കണ്ടെത്തി സമയവുമായി ബന്ധപ്പെട്ട് കറന്റ് i യുടെ മൂല്യം പ്ലോട്ട് ചെയ്യുമ്പോൾ വൈദ്യുതധാരയുടെ സ്വഭാവം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ കണ്ടു ആ സമയത്ത് t 1α ന് തുല്യമാണെന്ന് കണ്ടു കറന്റ് പരമാവധി മൂല്യത്തിൽ ആയിരിക്കും നമ്മൾ ചർച്ച ചെയ്ത മൂന്നാമത്തെ കേസ് ɑ ആണ് ആ സാഹചര്യത്തിൽ നമുക്ക് ലഭിച്ച കറണ്ടിന്റെ സമവാക്യത്തിന് എക്സ്പോണൻഷ്യൽ ടേം സൈൻ കോസൈൻ പദങ്ങൾ ഉണ്ടെന്ന് കണ്ടു അതിനാൽ കറന്റ് i ന്റെ വ്യതിയാനം പ്ലോട്ട് ചെയ്യുമ്പോൾ സമയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എക്സ്പോണൻഷ്യൽ ആയി ക്ഷയിക്കുന്നുണ്ടെന്നും അത് ഓസിലേറ്ററി ആണെന്നും കണ്ടു അത് ലഭ്യമായ സിനുസോയ്ഡൽ ഘടകം കാരണമാണെന്നും സമയപരിധി ആണെന്നും ലഭ്യമായ എക്സ്പോണൻഷ്യൽ ഘടകം കാരണം ഇത് എക്സ്പോണൻഷ്യൽ ആയി ക്ഷയിക്കുകയാണെന്നും കണ്ടു അതിനാൽ അവസാന ക്ലാസിൽ ചർച്ച ചെയ്തത് ഇതാണ് സീരീസ് ആർഎൽസി നെറ്റ്വർക്കിന്റെ വിവിധ സ്വഭാവവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാംഡാമ്പിംഗ് ഇഫക്റ്റ് റെസിസ്റ്റൻസ് R ന്റെ സാന്നിധ്യം മൂലമാണ് കാരണം ഡാമ്പിംഗ് ഫാക്ടർ റെസിസ്റ്റൻസ് R നെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നമുക്ക് R ന്റെ മൂല്യം ട്യൂൺ ചെയ്ത് വിവിധതരം ഡാമ്പിംഗ് ഇഫക്റ്റ് നേടാം കേസ് α 0 ന് തുല്യമാണെങ്കിൽ R എന്നത് 0 ന് തുല്യമാണ് അതിനർത്ഥം നമുക്ക് ശുദ്ധമായ ഒരു എൽസി സർക്യൂട്ട് ഉണ്ടെന്നും അത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ ഉണ്ടാകൂ എന്നും അർത്ഥമാക്കുന്നു ഇത് നിങ്ങളുടെ അൺഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസിയല്ലാതെ മറ്റൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ പ്രതികരണം ഓസിലേറ്ററി മാത്രമാണ് കൂടാതെ ഡിസ്സിപാറ്റിംഗ് ഘടകം ഇല്ലാത്തതിനാൽ സർക്യൂട്ടിന് നഷ്ടമുണ്ടാകില്ലെന്നും ഊർജ്ജം ഓസിലേഷൻ തുടരുകയും ചെയ്യും R ന്റെ മൂല്യം ക്രമീകരിക്കുന്നതിലൂടെ പ്രതികരണം അൺഡാംപ്ഡ് ഓവർഡാമ്പ്ഡ് ക്രിട്ടിക്കലി ഡാംപ്ഡ് അല്ലെങ്കിൽ അണ്ടർഡാമ്പ്ഡ് ആക്കാം അതിനാൽ R സീരീസ് RLC സർക്യൂട്ടിലെ പ്രധാന ഘടകമാണ് രണ്ട് തരം സംഭരണ മൂലകത്തിന്റെ സാന്നിധ്യം കാരണം ഓസിലേറ്ററി പ്രതികരണം സാധ്യമാണ് ഇവിടെ ഇൻഡക്റ്ററും കപ്പാസിറ്ററും ഉണ്ട് അവ ഒരു സംഭരണ ഘടകമായി പ്രവർത്തിക്കുന്നു അതിനാൽ എൽ സി എന്നിവ ഉള്ളതിനാൽ ഊർജ്ജപ്രവാഹം പുറകോട്ടും മുന്നോട്ടും പോകാൻ അനുവദിക്കുന്നു കാരണം നമുക്ക് ഓസിലേറ്ററി പ്രതികരണം ലഭിക്കുന്നു ഇപ്പോൾ സർക്യൂട്ടിന്റെ അണ്ടർഡാമ്പ്ഡ് പ്രതികരണത്തിലൂടെ ഡാംപ്ഡ് ഓസിലേഷൻ കാണിക്കുന്നു ഇത് റിംഗിംഗ് എന്നും അറിയപ്പെടുന്നു ഇപ്പോൾ ക്രിട്ടിക്കലി ഡാംപ്ഡ് കേസ് അണ്ടർഡാമ്പും ഓവർഡാമ്പും ഉള്ള കേസുകൾ തമ്മിലുള്ള അതിർത്തി രേഖയാണ് മാത്രമല്ല അതിവേഗം ക്ഷയിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനർത്ഥം അത് അതിവേഗം ക്ഷയിക്കും എന്നാണ് അതേ പ്രാരംഭ നിബന്ധനകളോടെ ഓവർഡാമ്പ് ചെയ്ത കേസ് ഏറ്റവും ദൈർഘ്യമേറിയ സെറ്റിലിംഗ് സമയം ഉണ്ട് കാരണം സംഭരണ ഘടകങ്ങളിൽ തുടക്കത്തിൽ സംഭരിക്കുന്ന ഊർജ്ജം ഇല്ലാതാക്കാൻ കൂടുതൽ സമയമെടുക്കും ഇപ്പോൾ ഓസിലേഷൻ അല്ലെങ്കിൽ റിംഗിംഗ് ഇല്ലാതെ വേഗതയേറിയ പ്രതികരണം വേണമെങ്കിൽ എന്തുചെയ്യണം സിസ്റ്റത്തെ ക്രിട്ടിക്കലി ഡാംപ്ഡ് സർക്യൂട്ട് ആക്കണം അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ ഓസിലേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് അതിവേഗ പ്രതികരണം ലഭിക്കും ഇപ്പോൾ നമുക്ക് ഉറവിടമില്ലാത്ത സമാന്തര ആർഎൽസി സർക്യൂട്ടിനെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഈ ഘടകങ്ങളെല്ലാം R L C എന്നിവ സമാന്തരമായി ഉണ്ടാകും അതിനാൽ പ്രാരംഭ അവസ്ഥ എന്താണെന്ന് ആദ്യം കണ്ടെത്തണം ഇൻഡക്ടറിലൂടെ ഒഴുകുന്ന പ്രാരംഭ കറന്റ് ഉം പ്രാരംഭ കപ്പാസിറ്റർ വോൾട്ടേജ് ഉം ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ സമയം 0 ന് തുല്യമാകുമ്പോൾ കറന്റ് സമവാക്യം ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നു ഇന്റഗ്രേഷൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയാണ് കാരണം ഇത് തുടക്കത്തിൽ സിസ്റ്റം വിശ്രമത്തിലായിരിക്കുന്ന സമയമാണിത് അതിനാൽ കറന്റ് പ്രവാഹം 0 ന് തുല്യമാണ് 0 ന് തുല്യമായ സമയത്തിന് മുമ്പ് കറന്റ് സർക്യൂട്ടിൽ പ്രവഹിക്കുന്നത് തുടരും സമാനമായി അതുപോലെ തന്നെ സമയം t 0 ന് തുല്യമാകുമ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് ഉപയോഗിച്ച് തുടക്കത്തിൽ ചാർജ് ചെയ്യപ്പെടുന്നുവെന്ന് അനുമാനിക്കുന്നു ഇപ്പോൾ എന്ത് സംഭവിക്കും ഈ രണ്ട് പ്രാരംഭ വ്യവസ്ഥകളും സർക്യൂട്ട് സമാന്തരവുമാണെന്ന് കരുതുന്നുവെങ്കിൽ എല്ലാ 3 ഘടകങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്ന നോഡിൽ നിങ്ങൾക്ക് കിർചോഫ് കറന്റ് നിയമം പ്രയോഗിക്കാൻ കഴിയും സമവാക്യം ൽ നൽകിയിരിക്കുന്നതുപോലെ റെസിസ്റ്റർ ഇൻഡക്റ്റർ കപ്പാസിറ്റർ വൈദ്യുത പ്രവാഹങ്ങളുടെ ആകെത്തുക ഈ നോഡിൽ 0 ആയിരിക്കും ഇപ്പോൾ സമവാക്യം ഡിഫറൻഷിയേഷൻ ചെയ്ത് C കൊണ്ട് ഹരിച്ചാൽ സമവാക്യം ലഭിക്കും ആദ്യത്തെ ഡെറിവേറ്റീവിനെ 𝜎 കൊണ്ടും രണ്ടാമത്തെ ഡെറിവേറ്റീവിനെ കൊണ്ടും മാറ്റിസ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് സ്വഭാവ സമവാക്യം നേടാനാകും നിങ്ങൾക്ക് ലഭിക്കും ഇത് രണ്ടാമത്തെ ഓർഡർ സമവാക്യമായതിനാൽ ഈ സമവാക്യത്തിന്റെ രണ്ട് റൂട്ടുകൾ ലഭിക്കും റൂട്ടുകൾ എന്തായിരിക്കും റൂട്ടുകൾ എന്നിവ ആയിരിക്കും മൂല്യങ്ങൾ സ്വഭാവ സമവാക്യങ്ങളാണെന്നും റൂട്ടുകൾ എന്നിവയാണെന്നും കരുതുക സമവാക്യം ൽ നൽകിയിരിക്കുന്നതുപോലെ എന്നിവയുടെ മൂല്യം ലഭിക്കും അതിനാൽ രണ്ട് റൂട്ടുകൾ ലഭിക്കും α12RC ഉം ഉം ആണെന്ന് കരുതുക ഇത് ഉപയോഗിച്ച് റൂട്ടുകൾ എന്ന് എഴുതാം ഇപ്പോൾ ഈ റൂട്ടുകൾ കാണുകയാണെങ്കിൽ സീരീസ് ആർഎൽസി സർക്യൂട്ട് വിശകലനം ചെയ്യുമ്പോൾ ലഭിച്ചതിന് സമാനമാണിത് α എന്നിവയുടെ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി മൂന്ന് പരിഹാരങ്ങൾ വീണ്ടും നേടാനാകും ഈ കേസിലെ ആർഎൽസി സർക്യൂട്ടുമായി താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് സാധ്യമായ മൂന്ന് പരിഹാരങ്ങൾ ലഭിക്കും ആദ്യ വ്യവസ്ഥ α രണ്ടാമത്തേത് α മൂന്നാമത്തേത് α ഇപ്പോൾ α ഓവർഡാംപ്ഡ് കേസ് എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ മുമ്പ് ഊഹിച്ച ഈ മൂല്യത്തിന് α എന്നിവ മാറ്റിസ്ഥാപിച്ചാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് എന്ന അവസ്ഥ ലഭിക്കും അത്തരം സന്ദർഭങ്ങളിൽ സ്വഭാവ സമവാക്യങ്ങളുടെ റൂട്ടുകൾ യഥാർത്ഥവും നെഗറ്റീവുമാണ് ഇത് സീരീസ് ആർഎൽസി സർക്യൂട്ടിന്റെ കാര്യത്തിലും ലഭിച്ചതിന് സമാനമാണ് അതിനാൽ സമാനമായി നിങ്ങൾക്ക് ഈ കേസിൽ ലഭിക്കുന്ന പ്രതികരണം സമവാക്യം ൽ നൽകിയിരിക്കുന്നു ഈ പ്രതികരണം സീരീസ് ആർഎൽസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ ലഭിച്ചതിന് സമാനമായിരിക്കും ഇപ്പോൾ α സിസ്റ്റം ക്രിട്ടിക്കലി ഡാംപ്ഡ് കേസ് ആയിരിക്കുമ്പോൾ അതിനാൽ അത്തരം സന്ദർഭങ്ങളും റൂട്ടുകൾ യഥാർത്ഥവും തുല്യവുമാണ് അതിനാൽ പ്രതികരണം സമവാക്യം നൽകിയെന്ന് പറയാൻ കഴിയും അതിനാൽ സീരീസ് ആർഎൽസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ ലഭിച്ചതിന് സമാനമാണിത് α മൂന്നാമത്തെ കേസ് അണ്ടർഡാമ്പ് ചെയ്ത കേസ് അതായത് ന്റെ മൂല്യം അതിനാൽ ഈ സാഹചര്യത്തിൽ റൂട്ടുകൾ കോമ്പ്ലെക്സും സമവാക്യം പോലെ പ്രകടിപ്പിക്കാവുന്നതുമാണ് ഇവിടെ അതിനാൽ സീരീസ് ആർഎൽസി സമാന്തര ആർഎൽസി സർക്യൂട്ടുകൾ എന്നി രണ്ട് കേസുകളും താരതമ്യം ചെയ്യാൻ കഴിയും റൂട്ടുകൾ ഒന്നുതന്നെയാണെന്ന് മനസ്സിലാക്കും ഒരേയൊരു മാറ്റം അവസ്ഥയായിരിക്കും കാരണം ഇവിടെ ഘടകങ്ങൾ സമാന്തരമാണ് ഇതിനാലാണ് എൽ ആർ സി എന്നിവ തമ്മിലുള്ള ബന്ധം രണ്ട് കേസുകളിലും വ്യത്യസ്തമാകുന്നത് പക്ഷേ ഒടുവിൽ പ്രതികരണം സീരീസ് ആർഎൽസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ ലഭിച്ചതിന് സമാനമായിരിക്കും ഈ സാഹചര്യത്തിൽ എക്സ്പ്രഷൻ നൽകുന്നത് ഓസിലേറ്ററി പ്രതികരണത്തിനൊപ്പം എക്സ്പോണൻഷ്യൽ ആയി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണവും നൽകും അതിനാൽ സീരീസ് ആർഎൽസി സർക്യൂട്ടിന്റെ കാര്യത്തിലെന്നപോലെ കറന്റ് i നെ സമയവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഈ സാഹചര്യത്തിൽ ഇത് ഒരു സമാന്തര ആർഎൽസി സർക്യൂട്ട് ആയതിനാൽ സമയവുമായി ബന്ധപ്പെട്ട് വോൾട്ടേജ് കണ്ടെത്താൻ താൽപ്പര്യമുണ്ട് അതിനാൽ ഇവിടെ എക്സ്പോണൻഷ്യൽ ആയി ക്ഷയിച്ചുകൊണ്ട് വീണ്ടും ഓസിലേറ്ററി പ്രതികരണം ലഭിക്കും ഒരു സീരീസ് ആർഎൽസി സർക്യൂട്ടിലേക്ക് ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് പ്രയോഗിക്കുമ്പോൾ കേസിനെക്കുറിച്ച് സംസാരിക്കാം T 0 ന് തുല്യമായ സമയത്ത് സ്വിച്ച് അടയ്ക്കുന്നതിലൂടെ മെഷിൽ ഒരു കറന്റ് ഒഴുകും ഇത് i ആണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഈ സർക്യൂട്ടിനായി മെഷ് സമവാക്യം എഴുതേണ്ടതുണ്ട് കെവിഎല്ലിൽ നിന്നും ലഭിക്കുന്ന ലൂപ്പ് അല്ലെങ്കിൽ മെഷ് സമവാക്യം ലളിതമാക്കാൻ ശ്രമിക്കും അതിനാൽ സമയം 0 നേക്കാൾ വലുതാകുമ്പോൾ കെവിഎൽ പ്രയോഗിക്കുമ്പോൾ സ്വിച്ച് അടയ്ക്കുന്നു നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം മെഷ് സമവാക്യത്തിൽ ഇത് ഉപയോഗിക്കുന്നതിലൂടെ രണ്ടാമത്തെ ഓർഡർ സമവാക്യം ലഭിക്കും ഇപ്പോൾ സ്വഭാവ സമവാക്യം താരതമ്യം ചെയ്യുമ്പോൾ സ്വഭാവ സമവാക്യം DC ഉറവിടത്തിന്റെ സാന്നിധ്യത്തെ ബാധിക്കില്ല ഈ സമവാക്യത്തിന്റെ പരിഹാരം രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് സ്വാഭാവിക പ്രതികരണവും മറ്റൊന്ന് നിർബന്ധിത പ്രതികരണവുമാണ് അതിനാൽ സീരീസ് ആർഎൽ അല്ലെങ്കിൽ സീരീസ് ആർസി സർക്യൂട്ടുകളുടെ കാര്യത്തിൽ ചർച്ച ചെയ്തതുപോലെയായിരിക്കും ഇത് ആ സർക്യൂട്ടുകളിലേക്ക് സ്റ്റെപ്പ് ഇൻപുട്ട് പ്രയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ ഇവിടെയും സർക്യൂട്ടിന്റെ മൊത്തം പ്രതികരണത്തെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കാം ഒന്ന് സ്വാഭാവിക പ്രതികരണവും മറ്റൊന്ന് നിർബന്ധിത പ്രതികരണവുമാണ് സമവാക്യം ലെ പോലെ മൊത്തത്തിലുള്ള പ്രതികരണത്തെ നിർബന്ധിത പ്രതികരണമായും സ്വാഭാവിക പ്രതികരണമായും എഴുതാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ സ്വാഭാവിക പ്രതികരണം കണ്ടെത്തുന്നതിന് നിങ്ങൾ Vs മൂല്യം 0 ന് തുല്യമായി സജ്ജീകരിക്കേണ്ടതുണ്ട് അതിനാൽ Vs 0 സമവാക്യം ൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടത് വശത്തെ ഘടകം മാത്രമേ ലഭിക്കൂ ഇത് 0 ന് തുല്യമായിരിക്കും ബാഹ്യ സ്രോതസ്സുകളില്ലാതെ ആർഎൽസി സർക്യൂട്ട് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അതേ സമവാക്യമാണിത് അതിനാൽ സോഴ്സ് ഫ്രീ ആർഎൽസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ മുമ്പത്തെ ചർച്ചയെ അടിസ്ഥാനമാക്കി സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണം എഴുതാം കൂടാതെ അവിടെയും പറയാം അണ്ടർഡാമ്പ് ഓവർഡാമ്പ് ക്രിട്ടിക്കലി ഡാംപ്ഡ് കേസുകൾ എന്നിവയാണ് മൂന്ന് വ്യവസ്ഥകൾ സമവാക്യങ്ങൾ ഉപയോഗിച്ച് ഇവ വിവരിക്കുന്നു ഇപ്പോൾ ഫോഴ്സ് പ്രതികരണം കണ്ടെത്തുന്നതിന് വോൾട്ടേജ് ടി യുടെ സ്ഥിരമായ അവസ്ഥ അല്ലെങ്കിൽ അന്തിമ മൂല്യം എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ടി എന്നാൽ ഇൻഫിനിറ്റിയിലേക്കുള്ള സമയമാണ് അർത്ഥമാക്കുന്നത് കപ്പാസിറ്റർ വോൾട്ടേജിന്റെ അന്തിമ മൂല്യം അതേ വോൾട്ടേജായിരിക്കും ഉറവിട വോൾട്ടേജ് ഈ പ്രത്യേക സ്വിച്ച് ഓണാക്കുമ്പോൾ ധാരാളം സമയം എന്ത് സംഭവിക്കുമെന്ന് കണ്ടാൽ ഇൻഡക്റ്റർ ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കും അതിനാൽ കപ്പാസിറ്ററിന് കുറുകെ മൊത്തം വോൾട്ടേജ് സോഴ്സ് വോൾട്ടേജിലേക്ക് പ്രയോഗിക്കും കാരണം കപ്പാസിറ്റർ അതിന്റെ മുഴുവൻ മൂല്യത്തിലേക്ക് ചാർജ് ചെയ്ത ശേഷം കറന്റ് i 0 ആയിരിക്കും അതിനാൽ ഒടുവിൽ കപ്പാസിറ്റർ വോൾട്ടേജ് Vs ന് തുല്യമായിരിക്കും അതിനാൽ നമ്മൾ ഉപയോഗിക്കുന്ന അതേ മൂല്യം നിർബന്ധിത പ്രതികരണം ഉറവിട വോൾട്ടേജല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പറയും അതിനാൽ ഇത് നമുക്ക് ലഭിച്ചു അതിനാൽ ഇപ്പോൾ ഓവർഡാമ്പ് അണ്ടർഡാമ്പ് ക്രിട്ടിക്കൽ ഡാംപ്ഡ് കേസുകൾക്കുള്ള പൂർണ്ണ പരിഹാരം 7 എ 7 ബി 7 സി സമവാക്യങ്ങളിൽ നൽകിയിരിക്കുന്നു ഇപ്പോൾ അവശേഷിക്കുന്നത് A1 A2 എന്നീ പാരാമീറ്ററുകളുടെ മൂല്യമാണ് അതിനാൽ ഈ മൂല്യങ്ങൾ സമയം 0 ന് തുല്യമാകുമ്പോൾ നമ്മൾ ഊഹിച്ച പ്രാരംഭ വ്യവസ്ഥകളുടെ സഹായത്തോടെ കണക്കാക്കാം നമുക്ക് പ്രാരംഭ വോൾട്ടേജും ഇൻഡക്ടറിലൂടെ ഒഴുകുന്ന പ്രാരംഭ വൈദ്യുതധാരയും ഉണ്ട് അതിനാൽ ഈ മൂല്യം ഉപയോഗിക്കാനും ഈ മൂന്ന് സമവാക്യങ്ങളിൽ അജ്ഞാതമായ സ്ഥിരതകളുടെ മൂല്യം കണ്ടെത്താനും കഴിയും അതിനാൽ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം ഇവിടെ ഒരു സീരീസ് ആർഎൽസി സർക്യൂട്ടിന്റെ സ്റ്റെപ് പ്രതികരണത്തെക്കുറിച്ച് ചർച്ചചെയ്തു അടുത്ത ക്ലാസ്സിൽ ചർച്ച തുടരും അവിടെ സമാന്തര ആർഎൽസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ സ്റ്റെപ്പ് പ്രതികരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും നന്ദി